അടുത്ത നിയന്ത്രിത ഉറവിടം കറണ്ട് നിയന്ത്രിത വോൾട്ടേജ് ഉറവിടമാണ് ഇതിന് ഒരു നിയന്ത്രിത വോൾട്ടേജ് ഉറവിടമുണ്ട് അതിന്റെ മൂല്യങ്ങൾ അതിലൂടെ ഒഴുകുന്ന കറന്റ് നൽകുന്നു ഒരു വൈദ്യുതധാര ഒഴുകുന്ന ഒരു വയർ ചിന്തിക്കുന്നത് സാധാരണമാണ് അടിസ്ഥാനപരമായി ഈ നോഡുകൾ n1 നും n2 നും ഇടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് ആ ബ്രാഞ്ചിലെ കറന്റ് അയയ്ക്കുന്നതിന് ഇത് ഏത് ബ്രാഞ്ചുമായും ശ്രേണിയിൽ സ്ഥാപിക്കാം ഈ കറണ്ട് നിയന്ത്രണ വോൾട്ടേജ് ഉറവിടം ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളിൽ വരുമ്പോൾ നമ്മൾ പിന്നീട് കാണും അതിനാൽ ഈ കറന്റ് Ix ആണെന്ന് പറയട്ടെ ഈ രണ്ട് ടെർമിനലുകളിലുടനീളമുള്ള വോൾട്ടേജ് RIx നൽകുന്നു ഈ ആനുപാതികത സ്ഥിരാങ്കം ഇതിനെ Rm എന്ന് സൂചിപ്പിക്കാൻ അനുവദിക്കുക ഈ ആനുപാതികത സ്ഥിരാങ്കത്തെ ട്രാൻസ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു വ്യക്തമായും ഇതിന് റെസിസ്റ്റൻസ്ന്റെ ഡൈമെൻഷൻ ഉണ്ട് കാരണം ഇത് ഒരു വോൾട്ടേജിന് കാരണമാകുന്ന ഒരു വൈദ്യുതധാരയെ കൊണ്ട് ഗുണിക്കുകയും അതിനെ കറണ്ട് നിയന്ത്രിത വോൾട്ടേജ് ഉറവിടത്തിന്റെ ട്രാൻസ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു RmIx ബന്ധം വീണ്ടും ലീനിയർ ആണ് എന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ ഞാൻ അതിലൂടെ പോകില്ല ഇത് തീർച്ചയായും ലീനിയർ ആണ് ഇതിന്റെ അർത്ഥമെന്താണ് ഇതിനർത്ഥം Rm രണ്ട് kΩ ആയി നിർവചിച്ചിരിക്കുന്ന ഒരു നിയന്ത്രിത ഉറവിടം നമ്മുടെ പക്കലുണ്ട് അതിനാൽ ഇതിനർത്ഥം നിങ്ങൾ ഇതുപോലുള്ള ഒരു മില്ലി ആമ്പ് ഉറവിടത്തെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഈ ടെർമിനലുകളിലുടനീളം നിങ്ങൾ രണ്ട് വോൾട്ട് അളക്കും ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയ ഇൻപുട്ട് ബ്രാഞ്ച് കറന്റ് മനസിലാക്കാൻ സർക്യൂട്ടിൽ എവിടെയും സ്ഥാപിക്കാം ഉദാഹരണത്തിന് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് പറയട്ടെ ഒരു വോൾട്ട് സ്രോതസ്സ് 10 കിലോ ഓം റെസിസ്റ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഓംസ് നിയമപ്രകാരം 0 1 മില്ലി ആമ്പ് ഇതിലൂടെ ഒഴുകുമെന്ന് നമ്മുക്കറിയാം ഇപ്പോൾ ഞാൻ ഇത് ചെയ്തുവെന്ന് പറയുകയും ഇത് ഇവിടെ മുറിച്ചു കറണ്ട് നിയന്ത്രിത വോൾട്ടേജ് ഉറവിടവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക നേരത്തെ പോലെ Rm2 kΩ ഉപയോഗിച്ച് പറയട്ടെ ഇതാണ് Ix ഇതാണ് RmIx ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിലൂടെ ഞാൻ 2 കിലോ ഓം 0 1 മില്ലിയാംപ് അളക്കും അത് 0 2 വോൾട്ട് ആണ് അതിനാൽ അതാണ് ഇതിന്റെ അർത്ഥം സാധാരണയായി നിങ്ങൾ ഈ കണക്ഷൻ മുറിക്കുന്നതും ഇതുപോലെ ഉൾപ്പെടുത്തുന്നതും കാണിക്കുന്നില്ല ഈ സർക്യൂട്ടിന്റെ രീതി താഴെ കാണിക്കും നിങ്ങൾക്ക് ഈ 1 വോൾട്ടും 10 kΩ ഉം ഉണ്ടായിരുന്നു ഇത് എവിടെയും ഏത് സർക്യൂട്ടും ആകാം കറണ്ട് നിയന്ത്രിത കറണ്ട് ഉറവിടത്തിന്റെ ഇൻപുട്ട് വയർ അല്ലെങ്കിൽ ഇൻപുട്ട് ബ്രാഞ്ച് അതിന്റെ വൈദ്യുതധാര മനസ്സിലാക്കുന്നതിനായി റെസിസ്റ്ററുമായി ശ്രേണിയിൽ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ സാധാരണയായി ചെയ്യുന്നത് ഇത് കറണ്ട് Ix എന്ന് അടയാളപെടുത്തുക എന്നതാണ് കൂടാതെ എനിക്ക് ഒരു വോൾട്ടേജ് ഉറവിടം Vx ഉണ്ട് അത് RmIx എന്ന് നിർവചിച്ചിരിക്കുന്നു അതിനാൽ സാധാരണയായി ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്